ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയൻറ് ആയി ഇലക്ട്രിക്ക് ഫീൽഡ് നാം മുൻപത്തെ ലെക്ച്ചറിൽ കണ്ടത് നമുക്ക് ഏതൊരു പോയിന്റിലെയും E യെ മൈനസ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആയി എഴുതാം എന്നാണ് നമുക്ക് ഈ ലെക്ച്ചറിൽ കണക്കാക്കേണ്ടത് V ആണ് പക്ഷെ അതിനു മുൻപ് നമുക്ക് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എന്നാൽ എന്താണെന്ന് മനസിലാക്കാം നാം എഴുതിയത് ഗ്രേഡിയന്റ് എന്നാൽ x ദിശയിൽ x പാർഷ്യൽ x പ്ലസ് y പാർഷ്യൽ y പ്ലസ് z പാർഷ്യൽ z എന്നാണ് അപ്പോൾ നാം ഇപ്പോൾ ഈ ഓപ്പറേറ്റർ മൂന്നു രീതിയിൽ ഉപയോഗിക്കുന്നു നാം ഇത് ഈയുടെ ഡൈവേർജെൻസ് കണക്കാക്കാൻ ഉപയോഗിച്ചു നാം ഇത് ഈ യുടെ കേൾ കാണാൻ ഉപയോഗിച്ചു നാം ഇത് ഒരു സ്കാലർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് കാണാൻ ഉപയോഗിച്ചു നമുക്ക് ഈ ഗ്രേഡിയന്റിന്റെ അർഥം മനസിലാക്കാം അത് നമുക്ക് ഈയും വിയും എങ്ങിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു ധാരണ നൽകും നിങ്ങൾക്കറിയാം ഗ്രേഡിയന്റ് നിർവചിക്കപ്പെട്ടത് ഒരു സ്കാലർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനെ ഫൈ ആർ എന്ന് എഴുതാം ഫൈ ആർ എന്നത് പൊട്ടൻഷ്യൽ ആയിരിക്കണമെന്നില്ല പക്ഷെ അത് ഒരു മുറിയിലെ ടെമ്പറേച്ചർ ഡിസ്ട്രിബൂഷൻ ആണെന്ന് വയ്ക്കുക നാം കണ്ടതെന്തെന്നാൽ ഞാൻ രണ്ടു പോയിന്റുകൾ എടുത്ത് വ്യത്യാസം കണക്കാക്കിയാൽ ഇത് രണ്ടെന്ന് വയ്ക്കുക ഇത് ഒന്നെന്ന് വയ്ക്കുക രണ്ടിലെ ടി മൈനസ് ഒന്നിലെ ടി ഇത് പാർഷ്യൽ ടി ബൈ പാർഷ്യൽ x ഗുണം ഡെൽറ്റ x പ്ലസ് പാർഷ്യൽ ടി ബൈ പാർഷ്യൽ y ഗുണം ഡെൽറ്റ y പ്ലസ് പാർഷ്യൽ ടി ബൈ പാർഷ്യൽ z ഗുണം ഡെൽറ്റ z നാം ഗ്രേഡിയന്റ് ടി ഡോട്ട് ഡെൽറ്റ l എന്നെഴുതി അപ്പോൾ ഗ്രേഡിയന്റ് എന്നത് ഒരു സ്കാലർ ഫീൽഡിലെ അടുത്തടുത്ത രണ്ടു പോയിന്റുകളിൽ വ്യത്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒൺ ഡൈമെൻഷനിൽ d ബൈ d x ഗുണം ഡെൽറ്റ x എന്നത് വ്യത്യാസമാണ് ഇവിടെ ഇത് ത്രീ ഡൈമെൻഷൻ താരതമ്യമാണ് ഇത് എങ്ങിനെ സങ്കല്പിക്കാം എന്ന് നമുക്ക് മനസിലാക്കാം ഞാൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ സർഫേസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക നമുക്ക് നോക്കാം നാം എന്താണ് അത് കൊണ്ട് അർത്ഥമാക്കാൻ പോകുന്നത് ഞാൻ ഒരു പെട്ടി എടുത്ത് അതിന്റെ എല്ലാ വശങ്ങളും ഒരേ ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നു ടി സമം നൂറ് ഡിഗ്രി യോ അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസുകൾ നോക്കാം ഞാൻ മെറ്റാലിക് ജോമെട്രി എടുത്ത് അതിനെ ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു ബാറ്ററിയുടെ മറ്റേ വശം ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ പൊട്ടൻഷ്യൽ എല്ലായിടത്തും V അല്ലെങ്കിൽ ഇ എം എഫ് ആയിരിക്കും അപ്പോൾ ഇതും കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസ് ആണ് അപ്പോൾ ഗ്രേഡിയന്റ് V അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ടി കോൺസ്റ്റാന്റിന് പെർപെൻഡിക്കലർ ആയിരിക്കും നാം പറയുന്ന ഈ പ്രോപ്പർട്ടി ടെമ്പറേച്ചറിന്റെയോ പൊട്ടൻഷ്യലിന്റെയോ ആണ് നാം ഇതെങ്ങനെയാണ് കാണുന്നത് അത് മനസ്സിലാക്കുന്നതിന് നമുക്കീ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസ് നിർമ്മിക്കാം അതിനു ശേഷം പോയിന്റ് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് പോകുമ്പോൾ എനിക്കറിയാം ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഗ്രേഡ് V ഡോട്ട് ഡെൽറ്റ l നു തുല്യമാണെന്ന് നാം കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസിൽ കൂടി നീങ്ങുകയാണെങ്കിൽ ഡെൽറ്റ V എന്നത് 0 ആണ് V ഡോട്ട് ഡെൽറ്റ l 0 ആണ് ഇത് ഗ്രേഡ് V യുടെ മോഡുലസ് l ന്റെ മോഡുലസ് ഡെൽറ്റ l നും ഗ്രേഡ് V ക്കും ഇടക്കുള്ള ആംഗിൾ ന്റെ കോസൈൻ ഇത് 0 ആണ് എല്ലായെപ്പോഴും 0 നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസിൽ കൂടി നീങ്ങുമ്പോൾ അതിനർത്ഥം കോസൈൻ തീറ്റ എന്നത് 0 ആയിരിക്കും അല്ലെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും അതായത് ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസിന് ലംബമായിരിക്കും പക്ഷെ പിന്നെയും ഇതിന്റെ ദിശ വ്യക്തമല്ല ഇത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് പോകുമോ അതോ തിരിച്ച് പോകുമോ അതും കാണാൻ വളരെ എളുപ്പമാണ് കോസൈൻ തീറ്റ ഒന്ന് അല്ലെങ്കിൽ 0 നു മേൽ ആണെങ്കിൽ ഗ്രേഡ് V ഡോട്ട് ഡെൽറ്റ l 0 നു മേൽ ആയിരിക്കും കൂടാതെ ഞാൻ നീങ്ങുകയാണ് ഇത് 0 നേക്കാൾ ഉയർന്നതാകയാൽ അതിനർത്ഥം നാം താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് പോകയാണ് അതിനാൽ കോസ് തീറ്റ ഒന്നോ 0 യിൽ കൂടുതലോ പോസിറ്റീവ് ആണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഞാൻ താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഗ്രേഡ് V ഡോട്ട് ഡെൽറ്റ l 0 ക്കു മുകളിലാണ് ഇത് സൂചിപ്പിക്കുന്നത് താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് പോകുന്നു എന്നാണ് അതിനർത്ഥം ഡെൽറ്റ V തഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്നതിലേക്കുള്ള ദിശയിലാണ് അപ്പോൾ നമുക്കിതിന്റെ അർഥം ജോമെട്രിക്കലായി കാണാം നമുക്ക് രണ്ടു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസുകൾ ഉണ്ടെന്നു വിചാരിക്കുക ഒന്ന് ഇതാണ് മറ്റേത് ഇതാണ് ഇത് V 2 ഇത് V 1 V 2 V 1 നേക്കാൾ വലുതാണ് എന്ന് വിചാരിക്കുക അപ്പോൾ എല്ലായിടത്തും ഗ്രേഡിയന്റ് ഓരോ പോയിന്റിലും ലംബവും ഉയർന്ന പൊട്ടൻഷ്യലിലേക്ക് ചൂണ്ടുന്നതും ആയിരിക്കും ഇപ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡ് എന്നത് മൈനസ് ഗ്രേഡ് V ആണെന്ന് ഓർമ്മിക്കുക അതിനർത്ഥം ഇലക്ട്രിക്ക് ഫീൽഡ് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്നതിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കൃത്യമായി എതിർ ദിശയിലേക്ക് പോകുന്നു അപ്പോൾ ഇലക്ട്രിക്ക് ഫീൽഡ് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് ചൂണ്ടുന്നു അപ്പോൾ നിങ്ങൾ ഗ്രേഡിയന്റ്ഉം കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കി ഗ്രേഡിയ്ന്റും കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അത് ഇതിനു ലംബമാണ് കൂടാതെ ഇലക്ട്രിക്ക് ഫീൽഡ് താഴ്ന്ന പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന പൊട്ടൻഷ്യലിലേക്കുള്ള ദിശയിലാണ് മൈനസ് ഗ്രേഡിയന്റ് കാരണം ഇലക്ട്രിക്ക് ഫീൽഡ് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്നും താഴ്ന്ന പൊട്ടൻഷ്യലിലേക്കാണ് കൂടാതെ എന്തുകൊണ്ടാണ് നമുക്ക് പൊട്ടൻഷ്യൽ നിർവചിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടു എന്തെന്നാൽ E യുടെ കേൾ 0 ആണ് അത് സൂചിപ്പിക്കുന്നത് എനിക്ക് ഇലക്ട്രിക്ക് ഫീല്ഡിനെ മൈനസ് ഗ്രേഡ് V എന്നെഴുതാൻ സാധിക്കും എന്നാണ് ഞാൻ ഇവ രണ്ടും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഏതെങ്കിലും അളവിന്റെ ഗ്രേഡിയന്റിന്റെ കേൾ 0 ആയിരിക്കും എന്നാണർത്ഥം ഇത് വളരെ ലളിതമായി കാണാൻ കഴിയുന്ന ഒരു ഗണിത തത്വമാണ് അപ്പോൾ നാമിത് ഭൌതിക തത്വങ്ങളിൽ കൂടി സ്ഥാപിച്ചു പക്ഷെ നമുക്ക് നോക്കാം ഗ്രേഡിയന്റിന്റെ കേൾ എന്നത് x പാർഷ്യൽ x പ്ലസ് y പാർഷ്യൽ y പ്ലസ് z പാർഷ്യൽ z ക്രോസ്സ് പ്രോഡക്റ്റ് x d V d x പ്ലസ് y d V d y പ്ലസ് z d V d z നമുക്ക് z ഘടകം നോക്കാം x ക്രോസ്സ് x 0 ആണ് x ക്രോസ്സ് y z ആണ് അത് d സ്ക്വയർ V ബൈ d x d y ആയിരിക്കും ഞാൻ z ഘടകം മാത്രമാണ് നോക്കുന്നത് അപ്പോൾ x ക്രോസ്സ് z എനിക്ക് y നൽകുന്നു ഞാൻ അതിനെപ്പറ്റി വിഷമിക്കുന്നില്ല y ക്രോസ്സ് x എനിക്ക് z നൽകുന്നു പക്ഷെ ഒരു മൈനസ് ചിഹ്നത്തോട് കൂടി അപ്പോളിത് മൈനസ് d സ്ക്വയർ V ബൈ d x d y ആണ് അതായത് 0 ആണ് അപ്പോൾ ഈ കേൾ 0 ആണ് V എന്നത് മൈനസ് ഗ്രേഡ് V ആണ് കേൾ ന്റെ ഗ്രേഡിയന്റ് 0 ആകയാൽ അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തതായി നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ പൊട്ടൻഷ്യൽ കണക്കാക്കുകയോ അതിന്റെ എക്സ്പ്രെഷൻ എഴുതുകയോ ഒരു ഇക്വേഷൻ മുഖാന്തിരം ചെയ്യുക എന്നതാണ് പൊട്ടൻഷ്യലിനായുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് ഇക്വേഷൻ പോലെ അതിന്റെ ആവശ്യകത എന്തെന്നാൽ E ഒരു വെക്ടറാണെന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് E കണക്കാക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം എനിക്ക് മൂന്നു കാര്യങ്ങൾ കണക്കാക്കേണ്ടതായുണ്ട് മറിച്ച് എനിക്കിപ്പോൾ പൊട്ടൻഷ്യൽ കണക്കാക്കണമെങ്കിൽ അതൊരു സ്കാലർ അളവാകയാൽ ഇലക്ട്രിക് ഫീൽഡ് കണക്കാക്കുന്നത് വളരെ എളുപ്പമാണ് എനിക്ക് സ്കാലർ അളവിന്റെ ഗ്രേഡിയന്റ് എടുത്ത് അതിൽ നിന്നും ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കാം ഈ രണ്ടു കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെക്ച്ചറിൽ ചർച്ച ചെയ്യാം